ബയോറിയാക്ടറുകളെ കുറിച്ചുള്ള പ്രഭാഷണം 16 എൻ എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മൾ ഒരു പ്രശ്നം തന്നിരിന്നു ഈ പ്രഭാഷണത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം ആ പ്രശ്നം പരിഹരിക്കാം ഇതാണ് പ്രാക്ടീസ് പ്രശ്നം 4 പ്രശ്നം വായിക്കുന്നു ഇനിപ്പറയുന്ന ഡാറ്റ KLa കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ് 500 rpm ൽ പ്രവർത്തിക്കുന്ന ഇളക്കുന്ന ടാങ്ക് ബയോറിയാക്ടർ 1 atm 37 degree C ഡൈനാമിക് പ്രതികരണ രീതി വഴി നിർണ്ണയിക്കുന്നതിന് ഓക്സിജന്റെ ഉറവിടം വായുവാണ് ഒരു മില്ലിവോൾട്ട് മീറ്റർ ആണ് അലിഞ്ഞു ചേർന്ന ഓക്സിജൻ നില ബയോറിയാക്റ്ററിന്റെ kLa കണ്ടെത്തുക മില്ലിവോൾട്ടിൽ ഓക്സിജൻ അലിയിച്ചതും സമയവുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പ്രശ്നങ്ങൾക്ക് നമ്മളുടെ പതിവ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്താണ് ആവശ്യം ഡൈനാമിക് പ്രതികരണ രീതി വഴി ബയോറിയാക്റ്ററിന്റെ kLa എന്താണ് നൽകിയിരിക്കുന്നത് കോശങ്ങളുടെ അഭാവത്തിൽ ബയോറെയാക്ടറിലെ ഓക്സിജൻ സോർപ്ഷൻ പ്രക്രിയസമയത്ത് മില്ലിവോൾട്ട് VS സമയം ഡൈനാമിക് പ്രതികരണ രീതി നിങ്ങൾ ഇവിടെ ഓർകേണ്ട കാര്യങ്ങൾലയിച്ച ഓക്സിജൻ പ്രോബ് അതിന്റെ പ്രവർത്തന തത്ത്വം ഒരു ഇലക്ട്രോ കെമിക്കൽ ആണ് പ്ലാറ്റിനം കാഥോഡ് ആണ്വെള്ളി ആനോഡ് ആണ് പിന്നെ ഇവ ഇലക്ട്രോലൈറ്റിൽ പ്രവർത്തിക്കുന്നു ഇലക്ട്രോകെമിക്കൽ സിസ്റ്റമാണിത് KCl ആണ് ഇലക്ട്രോലൈറ്റ് ഇവ ഒരു പാത്രത്തിൽ വയ്ക്കുക അതായത് അലിഞ്ഞു ചേർന്ന ഓക്സിജൻ നില അളക്കേണ്ട ബ്രോത്തിൽ മുക്കി വെക്കും ഈ പാത്രത്തെ ഒരു ഓക്സിജൻ പെർമീബിൾ പാട കൊണ്ട് ആവരണം ചെയ്യുന്നു പാടയിലൂടെ ഓക്സിജൻ വ്യാപിക്കുകയും ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ എത്തുകയും അതിൻറെ നിരക്ക് ഇലക്ട്രോലൈറ്റിൽ ഈ 2 ഇലക്ട്രോഡുകൾ സൃഷ്ടിക്കുന്ന പ്രവാഹത്തിന് ആനുപാതികമാണ് അതിനാൽ ഓക്സിജന്റെ നില പ്രവാഹവുമായി നേരിട്ട് ബന്ധപ്പെട്ടേക്കാം ഈ ഉദാഹരണത്തിൽ പെർസൻറ് എയർ സാച്ചുറേഷൻ പകരമായി കറൻറ് നേരിട്ടാണ് എന്താണ് യഥാർത്ഥത്തിൽ അളക്കുന്നത് ഇക്കാലത്ത് ലഭ്യമായ മീറ്ററുകൾ ഉപയോഗിച്ച് ഇലക്ട്രോണിക്കലായി നടക്കുന്ന പരിവർത്തനം കണക്കുകൂട്ടി വായു സാച്ചുറേഷൻ കിട്ടുന്നു ഇവിടെ നമ്മൾ മില്ലിവോൾട്ടുകൾ സ്വയം നോക്കും അവിടെ അലിഞ്ഞു ചേർന്ന ഓക്സിജന്റെ നേരിട്ടുള്ള സൂചകങ്ങൾ മിനിമം ആയിരിക്കും ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്റെ സ്വന്തം ഡാറ്റയാണിത് എന്റെ ഡോക്ടറൽ സ്റ്റഡീസിൽ ഞാൻ ഒരു മില്ലിവോൾട്ട് മീറ്റർ ഉപയോഗിച്ചു DO അളന്നിരുന്നു എന്റെ സ്വന്തം KLa അളവെടുപ്പ് ഡാറ്റയിൽ ഒന്നാണ് ഇത് അതിനാൽ നമ്മൾ അലിഞ്ഞു ചേർന്ന ഓക്സിജൻ അളവ് മില്ലിവോൾട്ട്സിൽ കാണുന്നു ബയോറിയാക്ടർ 500 ആർപിഎമ്മിൽ കറങ്ങുന്നു മർദ്ദം 1 atm താപനില 370C പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ എല്ലാ പാരാമീറ്ററുകളും അജിറ്റേഷൻറെ നില ആർപിഎം എയറേഷൻ നില ഒരു മിനിറ്റിൽ ലിറ്ററുകൾ അല്ലെങ്കിൽ ഒരു മിനിറ്റിലെ വോളിയത്തിൽ താപനില മർദ്ദം എല്ലാം kLa മൂല്യത്തെ സ്വാധീനിക്കുന്നു ഇതിൽ മാറ്റങ്ങൾ വരുമ്പോൾ kLa മൂല്യവും മാറും അതിനാൽ ഈ അവസ്ഥകളെല്ലാം പ്രവർത്തന അവസ്ഥയിൽ ക്രമീകരിക്കുകയും kLa അളക്കുകയും ചെയ്യുക എന്നതാണ് സാധാരണയായി ചെയ്യുന്നത് അത് നമുക്ക് ഓക്സിജൻ ട്രാൻസ്ഫർ ശേഷി അല്ലെങ്കിൽ ബയോറിയാക്റ്ററിന്റെ ഓക്സിജൻ വിതരണ ശേഷി യെ കുറിച്ച് ഒരു ധാരണ നൽകുന്നു മൂന്നാമത്തെ ചോദ്യം എന്താണ് ആവശ്യം എന്താണ് നിലവിലുള്ളത് ഇവ രണ്ടും എങ്ങനെ ബന്ദിപ്പിക്കും

ഇത് നമ്മൾ ഡിറൈവ് ചെയ്തതാണ് Co2 ലയിച്ച ഓക്സിജന്റെ ഗാഢത പിന്നെ 𝐶∗ ദ്രാവകത്തിലെ സാന്ദ്രത വാതകഘട്ടത്തിന്റെ ഓക്സിജൻ സാന്ദ്രതയുമായി സന്തുലനാവസ്ഥയിലുള്ള ഘട്ടം' ഗ്രാഫിൽ KLa ആണ് ഇവിടെ സ്ലോപ് പ്ലോട്ടിലെ പോയിന്റുകളുടെ കണക്കുകൂട്ടൽ മുകളിലുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ഡാറ്റയിൽ DO ലെവൽ വർദ്ധിക്കുകയും സ്ഥിരമായ വില 1 1 ൽ എത്തുകയും ചെയ്യുന്നു ദ്രാവകം ഗ്യാസ് ഘട്ടവുമായി സാച്ചുറേഷൻ അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിലെത്തിയെന്ന് ഇത് സൂചിപ്പിക്കുന്നു അത് ഇവിടെ വായുവാണ് അതിനാൽ ഈ മില്ലിവോൾട്ട് മൂല്യം 𝐶 ന് നേരിട്ട് ആനുപാതികമാണ് അതിനാൽ നമുക്ക് ഇത് 𝐶 ആയിട്ടു എടുക്കാം വിലകൾ ഈ സമവാക്യത്തിൽ കൊടുക്കുന്നു lnCC Co2 വ്യത്യസ്ത സമയ പോയിന്റുകൾക്കായി lnCC Co2 നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു വക്രത ലഭിക്കുമ്പോൾ ഓക്സിജൻ സോർപ്ഷനായി രേഖീയ രീതിയിൽ മാത്രമേ നമ്മൾക് ആ പ്രത്യേക സമവാക്യം ഉപയോഗിക്കാൻ കഴിയൂ ഇത് ഇവിടെ പ്രതീക്ഷിക്കപ്പെടേണ്ട ഒരു രേഖീയമല്ലാത്ത വരയാണ് രേഖീയത ഒരുപക്ഷേ ഇവിടെ ആരംഭിച്ച് മുകളിലേക്ക് പോകുന്നു അതിനാൽ നമ്മൾ ഈ സ്ഥലത്തെ മാത്രം കണക്കാക്കാൻ പോകുന്നു 𝑘𝐿𝑎 നമ്മൾ ഈ പ്രത്യേക സ്ഥലത്തെ സ്ലോപ് മാത്രം നോക്കുന്നു നോൺ ലീനിയർ മേഖലയിലുള്ള ആദ്യത്തെ 3 പോയിന്റുകൾ നമ്മൾ ഒഴിവാക്കുന്നു അങ്ങനെ ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള ഒരു വക്രം ലഭിക്കും ഏകദേശം 56 സെക്കൻഡിൽ രേഖീയത ആരംഭിച്ചു നമ്മൾ ഇവിടെ എല്ലാ പോയിന്റുകളും ഉപയോഗിച്ചു ഇത് പരീക്ഷണാത്മക ഡാറ്റയാണ് അതിനാൽ ഇത് എല്ലായ്പ്പോഴും കൃത്യമായ വരിയിൽ വരണമെന്നില്ല R വർഗത്തിൻറെ വില ഏകദേശം 0 94 ആണ് അത് ഈ പ്രത്യേക ഡാറ്റയിൽ നിന്ന് നേടാം ഇതാണ് സമവാക്യം അനുയോജ്യമായ സമവാക്യം സ്ലോപ് 0 0914 s 1 ആണ് നമ്മൾ സാധാരണയായി മണിക്കൂറിൽ ആണ് KLa കണക്കാക്കുന്നത് കാരണം നമ്മൾ സാധാരണയായി KLa നെ ഒരു മണിക്കൂറിൽ അടിസ്ഥാനത്തിൽ നോക്കുന്നു മണിക്കൂർ അടിസ്ഥാനത്തിൽ ഇത് 329h 1 ആയി മാറുന്നു